ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം എന്റെ പേര് ആരാധന മാലിക് ഞാൻ നിങ്ങളെ ഈ കോഴ്സ് ഇതുവരെ പഠിപ്പിച്ചു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഒരു കൂട്ടം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ സംസാരിച്ചു എന്താണ് HRM നിങ്ങൾ അത് എങ്ങനെ പ്രയോഗിക്കുന്നു വ്യത്യസ്തമായ പരിശീലന വികസന രീതികൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ കോമ്പൻസേഷനെക്കുറിച്ച് സംസാരിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേ സിസ്റ്റമ്സ്നെക്കുറിച്ചാണ് നാം ഓർക്കേണ്ട കാര്യം ഒന്ന് എന്താണ് കോമ്പൻസേഷൻ അതിനാൽ നമുക്ക് ഇതിലേക്ക് മടങ്ങാം റ്റോട്ടൽ കോമ്പൻസേഷൻ കോമ്പൻസേഷൻ എന്നതിനർത്ഥം നമ്മുടെ ജീവനക്കാർ നമുക്കുവേണ്ടി ചെയ്യുന്ന ജോലികൾക്ക് അവർ ഓർഗനൈസേഷന് നൽകുന്ന ഇൻപുട്ടുകൾക്ക് പകരമായി നമ്മൾ എങ്ങനെ പ്രതിഫലം നൽകുന്നു അല്ലെങ്കിൽ അവർക്ക് എന്ത് നൽകുന്നു എന്നാണ് അതാണ് കോമ്പൻസേഷൻ എന്നതിനർത്ഥം കോമ്പൻസേഷൻ എങ്ങനെ കണക്കാക്കാം റ്റോട്ടൽ കോമ്പൻസേഷൻ ബേസ് കോമ്പൻസേഷന് തുല്യമാണ് അതായത് ഞങ്ങൾ അവർക്ക് നൽകുന്ന അടിസ്ഥാന ശമ്പള ഇൻസെന്റീവുകളും അധിക ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകരെക്കാളും മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ഞങ്ങൾ അവർക്ക് നൽകുന്ന അധിക ആനുകൂല്യങ്ങളും പെർക്വിസിറ്റികളും റിവാർഡുകളുമാണ് അവരുടെ ജീവിതം കൂടുതൽ സുഖകരമാക്കുന്നതിനുള്ള പണേതര രീതികളെ ആനുകൂല്യങ്ങളായി തരം തിരിച്ചിരിക്കുന്നു അതിനാൽ അതാണ് റ്റോട്ടൽ കോമ്പൻസേഷൻ ഈ നിബന്ധനകളെല്ലാം നിർവചിച്ചു പെർക്വിസിറ്റുകളെ കുറിച്ച് സംസാരിച്ചു പെർക്വിസൈറ്റുകൾ വ്യത്യസ്ത തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് അതിനാൽ നിങ്ങൾ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം പോലെ ആയിരക്കണക്കിന് ജീവനക്കാരും വിദ്യാർത്ഥികളും എല്ലാവരുമുള്ള ഒരു വലിയ സ്ഥാപനമായ ഐഐടി പോലെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെങ്കിൽ അതിനാൽ നിങ്ങൾ ക്യാമ്പസിൽ താമസിക്കുന്നു നിങ്ങൾക്ക് വളരെ നല്ല ഭവന സൌകര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ആശുപത്രിയുണ്ട് സ്വന്തം മാർക്കറ്റുണ്ട് അതിനാൽ ഇവയാണ് നമുക്കുള്ള അനുമാനങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് സൌകര്യങ്ങൾ കാരണം നിങ്ങൾ അവിടെ ജോലി ചെയ്യുക ആണ് ദിവസത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും ജോബിലാണ് ഞങ്ങൾക്ക് ഒരു അവധിക്കാലമുണ്ട് ഞങ്ങൾക്ക് ലീവ് യാത്രാ ഇളവും ലഭിക്കും അതിനാൽ ഇവയെല്ലാം ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പെർക്വിസിറ്റുകൾ ആണ് അപ്പോൾ ഇന്നലെ സംസാരിച്ചതുപോലെ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന എന്തെങ്കിലും നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിലാണെങ്കിൽ അവ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ അവ നിങ്ങൾക്ക് സൌജന്യമായി നൽകും അതിനാൽ അതെല്ലാം ആനുകൂല്യങ്ങളാണ് പിന്നെ ഇവിടെ നിങ്ങൾ ഓർക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഇക്വിറ്റി ആണ് ഇക്വിറ്റി എന്നാൽ നമുക്കുള്ള ന്യായബോധം ആണ് ഞങ്ങൾക്ക് വേണ്ടത്ര ശമ്പളം ലഭിക്കുന്നുണ്ടോ എനിക്ക് അർഹമായത് കിട്ടുന്നുണ്ടോ എനിക്ക് കോമ്പൻസേഷൻ കിട്ടിയാൽ മതി എനിക്ക് ഉചിതമായ കോമ്പൻസേഷൻ ലഭിക്കുന്നുണ്ടോ ഞാൻ പ്രവർത്തിക്കുന്ന സംഘടന എന്റെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നുണ്ടോ അതിനാൽ അതാണ് നമ്മുടെ മനസ്സിലെ ന്യായബോധം നീതിബോധം അതിനെയാണ് ഇക്വിറ്റി എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ എന്റെ ഭാഗത്തുനിന്നുള്ള ഇൻപുട്ടിന്റെ അളവ് അല്ലെങ്കിൽ സ്ഥാപനം എന്നിൽ നിന്ന് കാണുന്ന ഔട്ട്പുട്ട് തുല്യമാണോ അതോ ന്യായമാണോ അതോ ഓർഗനൈസേഷൻ എനിക്ക് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ സമതുലിതമാണോ അതിനാൽ സ്ഥാപനത്തിൽ ഞാൻ ചെയ്യുന്ന ഏത് ജോലിയായാലും അവർക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ ഒരു തുല്യതയോ ഒരുതരം ന്യായമോ ഉണ്ടോ പിന്നെ അതിനു പകരമായി അവർ എനിക്ക് എന്ത് തരുന്നുവോ ഇവ രണ്ടും ഉചിതമായി സന്തുലിതമാണോ അതാണ് ഇക്വിറ്റി അർത്ഥമാക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ഇക്വിറ്റിയെക്കുറിച്ച് സംസാരിച്ചു ഞങ്ങൾ ന്യായമായ ശമ്പളത്തെ കുറിച്ച് സംസാരിച്ചു ഒരു കോമ്പൻസേഷൻ പദ്ധതി വികസിപ്പിക്കുന്നതിനുള്ള വ്യത്യസ്ത മാനദണ്ഡങ്ങളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു കോമ്പൻസേഷൻ മാത്രമാണ് സംഘടന എനിക്ക് നൽകുന്നത് അത് പണമാണ് അത് സേവനങ്ങളാണ് അത് നേട്ടങ്ങളാണ് സംഘടനയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത് അധിക കാര്യങ്ങളാണ് അതെല്ലാം കോമ്പൻസേഷൻ യോഗ്യമാണ് കൂടാതെ ശമ്പളം നൽകുന്നത് മോണിറ്ററി കോമ്പൻസേഷനെ സൂചിപ്പിക്കുന്നു പണം കോമ്പൻസേഷന്റെ ഭാഗമാണ് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ലഭിക്കുന്നു അതിനാൽ കോമ്പൻസേഷൻ പദ്ധതി വികസിപ്പിക്കുന്നതിനുള്ള ചില മാനദണ്ഡങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു കോമ്പൻസേഷൻ ഓർഗനൈസേഷനും ഞങ്ങൾക്കും ന്യായമാണെന്ന് ഉറപ്പാക്കാൻ ഉപയോഗിക്കാവുന്ന ചില മാതൃകകളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു ഒപ്പം ഞങ്ങൾ ഇക്വിറ്റി ബാലൻസ് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചു നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ക്ലാസിൽ ചർച്ച ചെയ്യാവുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് നൽകി ശരിയോ തെറ്റോ ആയ ഉത്തരങ്ങളില്ല പക്ഷേ ഈ ചോദ്യത്തിന്റെ ഉദ്ദേശ്യം വിമർശനാത്മക ചിന്തയെ ഉത്തേജിപ്പിക്കുക എന്നതാണ് ഇത് ഒരു ഭാവി ചിന്തയെ ഉത്തേജിപ്പിക്കുക എന്നതാണ് എത്ര സാധ്യതകൾ ഉണ്ടെന്ന് കണ്ടെത്താൻ നിങ്ങളെ ഉത്തേജിപ്പിക്കുക എന്നതാണ് കൂടാതെ അതിന് എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളുമുണ്ടാകും എന്നും മനസ്സിലാക്കാം കോമ്പൻസേഷൻ പദ്ധതികളുടെയും ബിസിനസ് പ്ലാനുകളുടെയും തന്ത്രപരമായ സംയോജനത്തെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു കൂടാതെ ഈ ക്ലാസിലൂടെ ഞാൻ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത് സമയം പരിമിതമാണെന്ന് എനിക്കറിയാം ഞാൻ കാര്യങ്ങൾ ഓർമിപ്പിക്കുന്നു എന്നാൽ ഏതൊരു ഓർഗനൈസേഷന്റെയും ബിസിനസ് പ്ലാൻ ഒരു പ്ലാൻ ആണ് അത് ഒരു സ്ഥാപനം ബിസിനസ്സ് ഓർഗനൈസേഷന് ഒരു നിശ്ചിത തുക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് പണം റിസോഴ്സ് സമയം എന്നിവയിൽ അവർ എത്രമാത്രം ചെലവഴിക്കുന്നുവെന്ന് അവർക്കറിയാം എന്തുതന്നെയായാലും അവർ ലക്ഷ്യമിടുന്നത് ആ പ്രവർത്തനത്തിന്റെ അവസാനത്തിൽ ഇവയിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു അതായത് പ്രോഫിറ്റ് എങ്ങനെ നിർവചിക്കപ്പെടുന്നു ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള പോസിറ്റീവ് വ്യത്യാസമാണ് പ്രോഫിറ്റ് നിങ്ങളുടെ ഔട്ട്പുട്ട് നിങ്ങളുടെ ഇൻപുട്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ അതിൽ പ്രോഫിറ്റ് നേടി അതിനാൽ ഞങ്ങൾ ഒരു ബിസിനസ് പ്ലാനിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത് ഓർഗനൈസേഷനിൽ നിന്ന് കൂടുതൽ നേടുന്നതിനെക്കുറിച്ചാണ് പണം ഊർജ്ജം കാര്യക്ഷമത ആവർത്തനം അത് എന്തുമാകാം അതിനാൽ ഞങ്ങൾ ഒരു ബിസിനസ് പ്ലാനിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രോഫിറ്റ് എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കൂടാതെ ഞങ്ങൾ ഒരു കോമ്പൻസേഷൻ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവനക്കാർക്ക് അവരുടെ സേവനങ്ങൾക്ക് പകരമായി ഞങ്ങൾ നൽകുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് കൂടാതെ അവസാനം ഞങ്ങളുടെ ബിസിനസ് പ്ലാനും കോമ്പൻസേഷൻ പദ്ധതിയും ഒരുപോലെ ഒരുമിച്ച് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് പരമാവധി ലാഭം നേടാൻ ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല ഞങ്ങളുടെ ജീവനക്കാരെ ഞങ്ങൾ നോക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് സാമ്പത്തിക ലാഭമൊന്നും ഉണ്ടാക്കാത്ത തരത്തിൽ ഞങ്ങൾക്ക് അവർക്ക് പണം നൽകാൻ കഴിയില്ല ഞങ്ങൾ നിർമ്മിക്കുന്നതെന്തും വിൽക്കുന്നതിലൂടെ ഞങ്ങൾക്ക് വലിയ തുക ലഭിക്കില്ല അത് ഒരു ഉൽപ്പന്നമായിരിക്കാം അത് ഒരു സേവനമായിരിക്കാം അതേ സമയം ഞങ്ങളുടെ ജീവനക്കാർക്ക് ഞങ്ങൾ നൽകുന്ന കോമ്പൻസേഷൻ വളരെ കുറവായിരിക്കരുത് കാരണം അവർ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയില്ല അവർ മറ്റ് സംഘടനകളിലേക്ക് പോകുന്നു സംഘടന തങ്ങളോട് അനീതി കാണിക്കുന്നുവെന്ന് അവർക്ക് തോന്നരുത് അവർ പറയും ശരി നിങ്ങൾ വളരെയധികം പണം സമ്പാദിക്കുന്നു എന്തുകൊണ്ടാണ് എനിക്ക് അതിന്റെ ഒരു ശതമാനം ലഭിക്കാത്തത് അതിനാൽ ഒരുതരം ബാലൻസ് കുറച്ച് അനുപാതം ഉണ്ടായിരിക്കണം സ്ഥാപനത്തിന് ധാരാളം പണം സമ്പാദിക്കണമെന്ന് ജീവനക്കാർ മനസ്സിലാക്കുന്നു സംഘടനയ്ക്ക് നിലനിൽക്കാൻ ഇത് വളരെ കുറവായിരിക്കരുത് ഓർഗനൈസേഷന്റെ ജീവനക്കാർക്ക് നിന്ദ്യമായതോ അന്യായമായി പെരുമാറുന്നതോ തോന്നുന്ന തരത്തിൽ ഇത് അമിതമായിരിക്കരുത് ഈ മുഴുവൻ തന്ത്രപരമായ ഏകീകരണത്തിന്റെയും അർത്ഥം അതാണ് ഞങ്ങളുടെ ജീവനക്കാരിൽ നിന്ന് പ്രതിബദ്ധത നേടേണ്ടതുണ്ട് അവർ ചെയ്യുന്നതെന്തും നമുക്ക് ലാഭം കിട്ടുന്ന തരത്തിൽ അവരെ ഒരു രീതിയിൽ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുകയും വേണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേ സിസ്റ്റത്തെക്കുറിച്ചാണ് ഒരേ സോർസ് പേ സിസ്റ്റം മെക്കാനിക്സിന്റെ അവലോകനം പേയ്മെന്റ് സംവിധാനങ്ങൾ എങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എങ്ങനെ പേയ്മെന്റ് സിസ്റ്റം മെക്കാനിക്സ് കൈകാര്യം ചെയ്യുന്നു എന്താണ് അവരുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നത് അതിനാൽ പേയ്മെന്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിന് ജോബ് ഡിസ്ക്രിപ്ഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ മുന്നത്തെ ക്ലാസിൽ ജോബ് ഡിസ്ക്രിപ്ഷനെക്കുറിച്ച് സംസാരിച്ചു ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നത് ഒരു പ്രത്യേക പ്രവർത്തനത്തിന് എന്താണ് ആവശ്യപ്പെടുന്നത് എന്നതിന്റെ വ്യക്തമായ വിശദമായ വിശദീകരണമാണ് പ്രത്യേക പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ കാലത്തിനനുസരിച്ച് വ്യവസായത്തിന്റെ ആവശ്യങ്ങൾക്കും ജീവനക്കാരുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് വികസിക്കുന്നു ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ഒരു ജോലിക്കാരൻ X ജോലി ചെയ്യണമെന്ന് പറഞ്ഞേക്കാം പക്ഷേ മറ്റൊരു ജോലി വരുന്നു അപ്പോൾ ജീവനക്കാരൻ Y ജോലിയും ചെയ്യേണ്ടതുണ്ട് എന്റെ സ്വന്തം തൊഴിലിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകാം ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേരുമ്പോൾ പഠിപ്പിക്കലും ഗവേഷണവുമാണ് ഞങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്തങ്ങൾ എന്ന് ഞങ്ങളോട് പറയുന്നു അതിനാൽ ഞങ്ങൾ ക്ലാസിൽ പഠിപ്പിക്കുന്നു ഞങ്ങൾ ഭാഗമാകുന്ന ഡിസിപ്ലിനിന്റെ പരിണാമത്തിന് സംഭാവന നൽകുന്ന ചില അറിവുകൾ ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്നു കൂടാതെ ഞങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട് സാവധാനം ഞങ്ങൾ ഓർഗനൈസേഷന്റെ ഭാഗമാകുമ്പോൾ ഒന്നുകിൽ ഞങ്ങൾ കൂടുതൽ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു കാരണം ഒന്നുകിൽ ഞങ്ങളുടെ പങ്ക് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ നമ്മുടെ ഇടപെടൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അവർക്കറിയാം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെയോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ പരിണാമത്തിൽ ഞങ്ങൾ സഹായിക്കേണ്ടതുണ്ട് ഇത് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത് സാധ്യമാകൂ അതിനാൽ അത് ചെയ്യുന്നതിന് ഞങ്ങളുടെ വൈദഗ്ധ്യത്തെയും വിവിധ മേഖലകളിലെ ഞങ്ങളുടെ അനുഭവത്തെയും അടിസ്ഥാനമാക്കി മേൽനോട്ടത്തിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം നമ്മിൽ വരുന്നു ഒടുവിൽ ഞങ്ങൾ എല്ലാം ചെയ്തു തീർക്കുന്നു ഇത് ഞങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷന്റെ ഭാഗമല്ല വല്ലപ്പോഴുമുള്ള ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ മാത്രം ചില സംഘടനകൾ അങ്ങനെ എഴുതുന്നു ചിലത് അങ്ങനെയല്ല തുടക്കത്തിൽ അധ്യാപനം പഠിപ്പിക്കൽ മാത്രമായിരുന്നു എന്നാൽ കാലക്രമേണ അതിൽ ഗവേഷണം കൂട്ടിച്ചേർക്കപ്പെട്ടു അതിനാൽ അത് അധ്യാപനവും ഗവേഷണവുമായിരുന്നു പിന്നെ പതുക്കെ സ്വയംഭരണ സ്ഥാപനങ്ങൾ പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് ഭരണപരമായ ഉത്തരവാദിത്തങ്ങളും വേണം പരമ്പരാഗത സർവ്വകലാശാല സംവിധാനങ്ങളിൽ നിങ്ങൾക്ക് പ്രത്യേക അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട് എന്നാൽ ഇവിടെ എല്ലാവരും എല്ലാം ചെയ്യുന്നു ഇത് ഓരോ സ്ഥാപനത്തിനും വ്യത്യസ്തമാണ് വ്യവസായത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മാറുമെന്ന് നിങ്ങൾക്കറിയാം അതുവഴി ഒരാൾ ചെയ്യുന്ന ജോബ് ഡിസ്ക്രിപ്ഷനിൽ മാറ്റം സംഭവിക്കുന്നു ഓരോ ജോലിയുടെയും പ്രധാന സവിശേഷതകൾ തിരിച്ചറിയുക എന്നതാണ് ലക്ഷ്യം അതിനാൽ ജോലിയുടെ ആപേക്ഷിക മൂല്യം നിർണ്ണയിക്കാനാകും വ്യത്യസ്ത ജോലികൾ വ്യത്യസ്തമായ ഒരു തുടക്കം ഉൾക്കൊള്ളാൻ തുടങ്ങുന്നു അതായത് വ്യത്യസ്ത കാര്യങ്ങൾ ഉദാഹരണത്തിന് ഒരു ബിസിനസ് സ്കൂളിൽ അദ്ധ്യാപനം പോലെ തന്നെ പ്രധാനമാണ് ഭരണവും കൂടാതെ അത് ഗവേഷണം പോലെ തന്നെ പ്രധാനമാണ് ഒരുപക്ഷേ ഒരു സർവ്വകലാശാലയിലെ ഒരു ഗവേഷണ അധിഷ്ഠിത സ്ഥാപനത്തിലോ ഗവേഷണ അധിഷ്ഠിത വിഭാഗത്തിലോ ഭരണനിർവഹണം അത്ര പ്രധാനമായിരിക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സ് സ്കൂൾ അധ്യാപകർ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ മികച്ചതാക്കുന്നു ഞങ്ങളുടെ റാങ്കിംഗ് മുകളിലാണെന്ന് ഉറപ്പാക്കുന്നത് ബാക്കി ജോലികൾ പോലെ തന്നെ പ്രധാനമാണ് ഒരു സൈദ്ധാന്തിക ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരിക്കില്ല പ്ലേസ്മെന്റ് ഒടുവിൽ സംഭവിക്കും ഒരു ബിസിനസ് സ്കൂളിന് പ്ലേസ്മെന്റ് നടന്നില്ലെങ്കിൽ റാങ്കിംഗ് കുറയും കൂടാതെ നിങ്ങളുടെ സ്കൂൾ ഉടൻ അടച്ചുപൂട്ടാം അതിനാൽ അത് മാറുന്നു കൂടാതെ വ്യവസായത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മറ്റൊരു രൂപമെടുക്കുന്നു കൂടാതെ ഈ ജോലി കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു കോമ്പൻസബിൾ ഘടകങ്ങളുടെ തിരിച്ചറിയൽ നിർവചനം തൂക്കം കോമ്പൻസബിൾ ഘടകങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു അവ ഒരു ജോലിയുടെ വശങ്ങളാണ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ നൽകേണ്ട ജോലിയിലേക്കുള്ള ഞങ്ങളുടെ ഇൻപുട്ടുകളുടെ വശങ്ങളാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് കൂടുതൽ മണിക്കൂറുകളോളം ഉണർന്നിരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കൂടുതൽ മണിക്കൂറുകളോളം ഉൽപ്പാദനക്ഷമതയുള്ളവരായിരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ശാരീരിക ശക്തിയുമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഈ കഴിവുകൾ നിങ്ങൾക്കുണ്ട് എന്നാൽ നിങ്ങൾ സേവന വ്യവസായത്തിലാണെങ്കിൽ ദീർഘകാലത്തേക്ക് സമ്മർദ്ദത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ കഴിവാണ് ആവശ്യമായ വൈദഗ്ദ്ധ്യം അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷനിൽ ആണെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഡോക്ടറാണെങ്കിൽ കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് കൂടുതൽ സമയം കാര്യക്ഷമമായി പ്രവർത്തിക്കുക ഇവയാണ് ആവശ്യമായ കഴിവുകൾ കൂടാതെ വളരെ കുറച്ച് സമയം കൊണ്ട് ഉറങ്ങുക ഒരുപക്ഷേ ഓർഗനൈസേഷന് വളരെയധികം മൂല്യം വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്താനുള്ള നിങ്ങളുടെ കഴിവിന് ഒരു വിലയുമില്ല നിങ്ങൾക്ക് അത് ജോലിയിൽ കൊണ്ടുവരാം പക്ഷേ സംഘടനയ്ക്ക് അതിന്റെ ആവശ്യമില്ല അതിനാൽ അവർ നിങ്ങൾക്ക് കോമ്പൻസേഷൻ നൽകില്ല കൂടുതൽ സമയത്തേക്ക് കാര്യക്ഷമമായി പ്രവർത്തിച്ചതിന് അവർ നിങ്ങൾക്ക് കോമ്പൻസേഷൻ നൽകും അതുപോലെ നിങ്ങൾ നിർമ്മാണ വ്യവസായത്തിൽ ഷോപ്പ് ഫ്ലോറിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് നടക്കേണ്ടി വരും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഒരു ടൂറിസ്റ്റ് ഗൈഡ് ആണെങ്കിൽ ആളുകൾക്ക് ഒരേ കാര്യം വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം നടക്കേണ്ടതുണ്ട് കൂടാതെ അത്രയും നേരം നടക്കാൻ ആവശ്യമായ ശാരീരിക ബലം വൈകുന്നേരങ്ങൾ വരെ ഉണർന്നിരിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് കാരണം ഷോപ്പ് ഫ്ലോറിലോ ഫാക്ടറിയോ 5 മണിക്ക് അടയ്ക്കും 5 മണിക്ക് വീട്ടിൽ പോകണം അതിനാൽ നിങ്ങൾക്ക് പുലർച്ചെ 2 മണി വരെ ഉണർന്നിരിക്കാൻ കഴിയുമെങ്കിലും അത് സ്ഥാപനത്തിന് ആവശ്യമില്ല 5 മണിക്ക് ജോലി അവസാനിക്കുന്ന ആളുകളെ സ്മാരകങ്ങൾ കാണിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഗൈഡ് രാത്രി ഒന്നോ രണ്ടോ മണി വരെ ഉണർന്നിരിക്കാം കൂടാതെ വീണ്ടും പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം പക്ഷേ ഈ വ്യക്തിക്ക് രാവിലെ 9 മണി അല്ലെങ്കിൽ രാവിലെ 10 മണിക്ക് അവന്റെ അല്ലെങ്കിൽ അവളുടെ ജോലിയിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അതിനാൽ ഉണർന്നിരിക്കാനും ഇക്കാലമത്രയും കാര്യക്ഷമത പുലർത്താനുമുള്ള ഈ കഴിവ് ഉപയോഗിച്ച് സംഘടന എന്താണ് ചെയ്യാൻ പോകുന്നത് കഴിവ് ഉണ്ടെങ്കിലും സംഘടനയ്ക്ക് അത് ആവശ്യമില്ല കൂടാതെ അവർ അതിന് നിങ്ങൾക്ക് കോമ്പൻസേഷൻ നൽകില്ല ഇതാണ് കോമ്പൻസബിൾ ഘടകങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് കൂടാതെ ഓരോ ജോലിക്കും കോമ്പൻസേഷൻ നൽകുന്ന ഘടകങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ് എന്തുകൊണ്ടെന്നാൽ രാഷ്ട്രീയ അന്തരീക്ഷം സാമ്പത്തിക അന്തരീക്ഷം ജോലിയുടെ ആവശ്യകതകൾ സ്ഥാപനത്തിന്റെ സംസ്കാരം മുതലായവയിലെ മാറ്റത്തിനനുസരിച്ച് തൊഴിൽ വിവരണം മാറാൻ പോകുന്നു ജോലിയുടെ മൂല്യനിർണ്ണയ രീതിയും നാം കണക്കിലെടുക്കേണ്ടതുണ്ട് വ്യത്യസ്ത ജോലികളുടെ മൂല്യനിർണ്ണയ രീതി ഇവയെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കും ഞങ്ങൾക്ക് പേ സർവേകളും ഉണ്ട് വ്യത്യസ്ത ജീവനക്കാർ ചെയ്യുന്ന ജോലികൾക്ക് വ്യവസായം എങ്ങനെ പ്രതിഫലം നൽകുന്നുവെന്ന് ഞങ്ങൾ സർവേ ചെയ്യുന്നു ഈ സർവേകൾ ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് ജോലികളെ ബെഞ്ച്മാർക്ക് ചെയ്യാൻ കഴിയും ഞങ്ങൾ ബെഞ്ച്മാർക്കിംഗിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കും അതിനാൽ പേ സർവേകൾ അതാണ് ചെയ്യുന്നത് അവർ ഞങ്ങളെ ജോലികൾ ബെഞ്ച്മാർക്ക് ചെയ്യാൻ സഹായിക്കുന്നു വിപണി പ്രവണതകളുമായി സമ്പർക്കം പുലർത്താൻ അവ ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾക്ക് ഒരു പേ സ്ട്രക്ച്ചർ ഉണ്ട് ആർക്കൊക്കെ എത്ര ശമ്പളം കിട്ടുമെന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും ആളുകളെ എങ്ങനെ വിഭാഗങ്ങളായി തരംതിരിക്കാം എന്ന് ഞങ്ങൾ എങ്ങനെ തീരുമാനിക്കും ഉദാഹരണത്തിന് എന്റെ പ്രൊഫഷനിൽ ആരാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആരാണ് അസോസിയേറ്റ് പ്രൊഫസർ ആരാണ് ഫുൾ പ്രൊഫസർ എന്ന് എങ്ങിനെയാണ് തീരുമാനിക്കുന്നത് ചില നിർവചിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട് ഈ യോഗ്യതകളോടെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ഔട്ട്പുട്ട് ആണെങ്കിൽ നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസറാകും നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ A B C D E എന്നീ മാനദണ്ഡങ്ങൾ പാലിക്കണം തുടർന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന നിലയിൽ നിങ്ങൾ നേടിയത് നേടിയ മറ്റുള്ളവരുമായി ഒരു തുറന്ന മത്സരത്തിലൂടെ നിങ്ങൾ മത്സരിക്കും തുടർന്ന് ഞങ്ങൾ മികച്ച സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്ത് അവരെ അവളെ അല്ലെങ്കിൽ അവനെ അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനത്ത് നിർത്തും അതിനാൽ ആ ഘട്ടത്തിലെ കുതിപ്പ് വലുതാണ് പക്ഷേ പേ സ്ട്രക്ച്ചർ മറ്റൊരു രീതിയിൽ നിർണ്ണയിക്കപ്പെടുന്നു നിങ്ങളുടെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എത്ര ശമ്പളം ലഭിക്കുന്നു എന്നതിന്റെ ഫംഗ്ഷനായി മാറുന്നു കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ ഔട്ട്പുട്ട് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ പേ സ്ട്രക്ച്ചറിന്റെ അടുത്ത തലത്തിലേക്ക് മത്സരിക്കാൻ നിങ്ങൾക്ക് യോഗ്യത നേടാനാകും അതിന് നിയുക്തമാക്കിയിരിക്കുന്ന മറ്റൊരു പദവിയാൽ അത് കൂടുതൽ സ്പഷ്ടവും ആകർഷകവുമാക്കുന്നു പരമ്പരാഗത ജോബ് ബേസ്റ്റ് കോമ്പൻസേഷൻ മോഡലിൽ പരമ്പരാഗതമായി കോമ്പൻസേഷൻ നിങ്ങൾ ഓർഗനൈസേഷന് നൽകുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനിക്കുന്നത് അതിനാൽ ഇത് ജോലിയുടെ സവിശേഷതകളുടെ പ്രവർത്തനമാണ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെ ജോലി നിർവചിച്ചിരിക്കുന്നു കോമ്പൻസേഷൻ നൽകാവുന്ന ഘടകങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിച്ചതുപോലെ സ്ഥാപനം നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് നിങ്ങൾ ഏത് തരത്തിലുള്ള ഔട്ട്പുട്ട് നൽകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ജോലിയുടെ ആപേക്ഷിക മൂല്യം കണക്കാക്കുന്നതിനാണ് ജോലി മൂല്യനിർണ്ണയം നടത്തുന്നത് ഈ ജോലികളിൽ ഏതാണ് കൂടുതൽ പ്രധാനം ഏതാണ് പ്രാധാന്യം കുറവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ജോബ് ഹൈറാർകി ഇത് ഒരു വലിയ സജ്ജീകരണത്തിനുള്ളിലുള്ള വ്യത്യസ്ത ജോലികൾക്കുള്ള മുൻഗണനയാണ് ജോലികളിലെ ശമ്പള നിരക്കുകൾ അറ്റാച്ച് ചെയ്യുന്നു സ്ഥാപനത്തിൽ വ്യവസായത്തിൽ ശമ്പള നിരക്കുകൾ അറ്റാച്ചുചെയ്യുന്നു ഗ്രേഡ് ലെവലുകൾ അനുസരിച്ച് ജോലികളെ തരംതിരിക്കാൻ നിങ്ങൾ തീരുമാനിച്ച ശമ്പള ഘടനകൾ ഉദാഹരണത്തിന് ഞങ്ങൾക്ക് ധാരാളം അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട് പക്ഷേ നമുക്കെല്ലാവർക്കും ഒരേ ശമ്പളം ലഭിക്കുന്നില്ല ഞങ്ങൾ സ്ഥാപനത്തിൽ എത്ര വർഷം സേവിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ചില ഓർഗനൈസേഷനുകളിൽ അത് നിങ്ങൾ നൽകുന്ന ഔട്ട്പുട്ട് അനുസരിച്ചാണ് നിർണ്ണയിക്കുന്നത് നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഗവേഷണ പ്രബന്ധങ്ങളുടെ എണ്ണത്തിലും അവ എവിടെ പ്രസിദ്ധീകരിക്കുന്നു എന്നതിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കീഴിൽ എത്ര വിദ്യാർത്ഥികൾ പിഎച്ച്ഡി ബിരുദം നേടി എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എത്ര കൺസൾട്ടിംഗ് പ്രോജക്ടുകൾ കൊണ്ടുവരുന്നു അതെല്ലാം നിങ്ങൾക്ക് എത്ര ശമ്പളം ലഭിക്കുമെന്ന് നിർണ്ണയിക്കുന്നു അതിനാൽ ഇവ തരം തിരിച്ചിരിക്കുന്നു നിങ്ങൾ ഒരേ ഗ്രേഡിലാണ് പക്ഷേ അവിടെയും വ്യത്യസ്ത തരംതിരിവുകൾ ഉണ്ട് ഓരോ ജോലിക്കും ഒരു പരിധിക്കുള്ളിൽ വ്യക്തിഗത വേതനത്തിന്റെ അസൈൻമെന്റ് അതിനാൽ അസിസ്റ്റന്റ് പ്രൊഫസർക്കിടയിൽ തന്നെ ആർക്ക് എന്ത് ലഭിക്കും ഒരു അസിസ്റ്റന്റ് പ്രൊഫസർന് X നും Y നും ഇടയിൽ എന്ത് റേഞ്ച് ശമ്പളം ലഭിക്കുമെന്ന് തീരുമാനിച്ചു എന്നാൽ അതിനുള്ളിൽ നിങ്ങൾക്ക് എത്ര കിട്ടും എന്നത് നിങ്ങളുടെ ഔട്ട്പുട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ അത് ഓർഗനൈസേഷൻ നിങ്ങളുടെ ഔട്ട്പുട്ട് എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ പരമ്പരാഗതമായി കോമ്പൻസേഷൻ പദ്ധതികൾ തീരുമാനിച്ചിരിക്കുന്ന രീതി ഇതാണ് ഈ കാര്യങ്ങളെല്ലാം അവർ കണക്കിലെടുക്കുന്നു തൊഴിൽ മൂല്യനിർണ്ണയത്തെ ബാധിക്കുന്ന വ്യത്യസ്ത നയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജോലികളെ എങ്ങനെ വിലയിരുത്തും ആദ്യത്തേത് ജോലികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മാനേജ്മെന്റ് എങ്ങനെ കാണുന്നു എന്നതാണ് അതിനാൽ ഉദാഹരണത്തിന് മിസ്റ്റർ രത്തൻ ടാറ്റ ഒരു കാർ നിർമ്മിക്കാൻ തീരുമാനിച്ചു ഇരുചക്ര വാഹനങ്ങളിൽ കുടുംബങ്ങളെ മാറ്റി പകരം താങ്ങാനാവുന്ന ഗതാഗത മാർഗ്ഗം എന്ന ആശയവുമായി ആരോ രംഗത്തെത്തിയിരുന്നു അതിനാൽ ഒരു കാർ ഉണ്ടായിരിക്കണമെന്ന് മിസ്റ്റർ രത്തൻ ടാറ്റ തീരുമാനിച്ചു ചെറുതാണ് പക്ഷേ അത് ഒരു കുടുംബത്തെ ഉൾക്കൊള്ളാൻ കഴിയണം ഇന്ത്യയിൽ ആളുകൾ ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുന്ന രീതിയേക്കാൾ സുരക്ഷിതമായിരിക്കണം അത് മുഴുവൻ കുടുംബവും നാലോ അഞ്ചോ പേർ ഒരു ഇരുചക്രവാഹനത്തിൽ പോകുന്നത് കുടുംബത്തിന് വളരെ അപകടകരമാണ് കൂടാതെ അതേ റോഡിലെ മറ്റ് വാഹനയാത്രികർക്ക് വളരെ വളരെ അപകടകരമാണ് ഒരാൾ ഈ ആശയം കൊണ്ടുവരുന്നു ഈ ആശയം അംഗീകരിക്കാൻ മറ്റുള്ളവരെയും മറ്റ് പങ്കാളികളെയും പ്രേരിപ്പിക്കുന്നു ജോലി വിഭജിക്കുന്നു ആരോ കാറിന്റെ രൂപകല്പന ചെയ്യുന്നു ആരോ കാറിന്റെ സാമ്പത്തിക സാധ്യത രൂപകല്പന ചെയ്യുന്നു ആരോ കാറിന്റെ ദൃഢത രൂപകൽപ്പന ചെയ്യുന്നു ആരോ എങ്ങനെ കാർ വിൽക്കാമെന്നും ഉപഭോക്താക്കളെ ലക്ഷ്യം വയ്ക്കാമെന്നും കണ്ടുപിടിക്കുന്നു പിന്നീട് അവർ വിവിധ ഭാഗങ്ങളായി പ്രവർത്തിക്കുന്നു അതിനാൽ കാർ രൂപകൽപ്പന ചെയ്യുന്ന വ്യക്തി ഉദാഹരണത്തിന് തീരുമാനിക്കാൻ അവന്റെ അല്ലെങ്കിൽ അവളുടെ ടീമിനോട് ആവശ്യപ്പെടാം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഡോറുകൾ രൂപകൽപ്പന ചെയ്യാനുള്ള ചുമതല നൽകാം കൂടാതെ മറ്റൊരു വ്യക്തിക്ക് ഇന്റീരിയറുകൾ കൂടാതെ എഞ്ചിൻ മൂന്നാം വ്യക്തിക്ക് ഒപ്പം മറ്റൊരു വ്യക്തിക്ക് ബൂട്ട് അതിനാൽ ഡിസൈൻ എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം പിന്നെ ഒടുവിൽ ആകാരങ്ങൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് പ്രവർത്തിക്കുന്ന അവരുടെ സ്വന്തം ടീം ഉണ്ട് കൂടാതെ ഏത് തരത്തിലുള്ള ഫൈബർ ഗ്ലാസ് ഉപയോഗിക്കണം ഉദാഹരണത്തിന് കാറിനുള്ളിലെ ചില നോബുകൾക്ക് ഏതുതരം മ്യൂസിക് സിസ്റ്റമാണ് കാറിൽ വയ്ക്കേണ്ടത് ഇവയെല്ലാം ആളുകൾ വ്യത്യസ്ത ആളുകളുമായി ഏകോപിപ്പിക്കും ഇപ്പോൾ ടാറ്റ നാനോ എന്ന ആശയം ആദ്യം കൊണ്ടുവന്ന വ്യക്തിക്ക് ഇതെല്ലാം സംഭവിക്കുന്നുവെന്ന് അറിയാം പക്ഷേ ഈ വ്യത്യസ്തരായ ഓരോരുത്തരുമായും സമ്പർക്കം പുലർത്തണമെന്നില്ല കൂടാതെ ഈ ജോലികളിൽ ഏതാണ് മറ്റൊന്നിനേക്കാൾ പ്രധാനമെന്ന് തിരിച്ചറിയാൻ കഴിയില്ല കൂടാതെ താഴ്ന്ന തലങ്ങളിൽ ഈ ജോലികൾക്ക് എങ്ങനെ മുൻഗണന നൽകുന്നുവെന്ന് അറിയില്ലായിരിക്കാം അതിനാൽ നിങ്ങൾക്കറിയാമോ ഈ വ്യത്യാസങ്ങൾ ആശയവിനിമയം നടത്തേണ്ടതുണ്ട് അവ മനസ്സിലാക്കേണ്ടതുണ്ട് അവ തിരിച്ചറിയേണ്ടതുണ്ട് തീർച്ചയായും ആരെങ്കിലും അയാളോട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടാകണം എന്നിട്ടും ഏതൊക്കെ ജോലികൾ വ്യത്യസ്തമാണെന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും ഉദാഹരണത്തിന് ഒരു ഡോർ ഹാൻഡിൽ രൂപകൽപ്പന ചെയ്യുന്ന ജോലി കാറിനായി ഒരു ബമ്പർ രൂപകൽപ്പന ചെയ്യുന്ന ജോലിയിൽ നിന്ന് വ്യത്യസ്തമാണ് കൂടാതെ കാറിന്റെ പിൻസീറ്റ് രൂപകൽപ്പന ചെയ്യുന്ന ജോലിയിൽ നിന്ന് അത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കൂടാതെ ഇവയിൽ ഏതാണ് മറ്റൊന്നിനെക്കാൾ പ്രധാനം കൂടാതെ ആളുകൾക്ക് എങ്ങനെ കോമ്പൻസേഷൻ നൽകണം തുടർന്ന് ഈ വ്യത്യാസങ്ങൾ ജീവനക്കാർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവ് ഉദാഹരണത്തിന് എഞ്ചിന്റെ വിവിധ ഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന വ്യക്തിക്ക് കാറിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ആളേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം കാറിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അങ്ങനെയുള്ളവരുടെ ജോലിയാണ് കൂടുതൽ പ്രധാനം ഇന്റീരിയറുകൾ എങ്ങനെയിരിക്കും എന്നത് പ്രശ്നമാകാം പക്ഷേ കാർ ഓടുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം മാത്രം നൽകുന്നു കൂടാതെ എന്താണ് കൂടുതൽ പ്രധാനമെന്ന് ജനങ്ങൾ തിരിച്ചറിയണം അതിനാൽ ഈ വ്യത്യാസങ്ങൾ വ്യത്യസ്ത ജീവനക്കാരെ അറിയിക്കണം കൂടാതെ ജീവനക്കാർക്ക് അതിനെക്കുറിച്ച് ബോധ്യപ്പെടണം അതാണ് നമ്മൾ അർത്ഥമാക്കുന്നത് ഇക്വിറ്റി ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൂടാതെ ജോലികളുടെ നിലവിലുള്ളതും ഭാവിയിലെതുമായ സ്ഥിരത ഇപ്പോൾ ജോലിയുടെ സ്ഥിരത ഉദാഹരണത്തിന് സാങ്കേതിക വ്യവസായത്തിൽ ഇത് വളരെ കുറവാണ് ഈ കോഴ്സ് എടുക്കുന്ന നിങ്ങളിൽ എത്ര പേർ ഇന്റർനെറ്റിന് മുമ്പുള്ള ജനറേഷനിൽ നിന്നുള്ളവരാണ് എന്ന് എനിക്കറിയില്ല ഇന്റർനെറ്റ് ഇല്ലാതെയാണ് ഞാൻ വളർന്നത് 25 24 അല്ലെങ്കിൽ 25 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് കൂടാതെ അതുവരെ ഇന്റർനെറ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് കൂടാതെ അതിന് എന്ത് ചെയ്യാൻ കഴിയും കമ്പ്യൂട്ടറിലൂടെ ആളുകളെ ബന്ധിപ്പിക്കുന്ന ഒരു രീതിയിൽ നിന്ന് ഒരു കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് ഇന്റർനെറ്റ് വികസിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്റെ ബിരുദാനന്തര ബിരുദ പഠനത്തിൽ തീസിസ് കൈകൊണ്ട് എഴുതിയതാണ് 4 വ്യത്യസ്ത നഗരങ്ങളിലെ 6 അല്ലെങ്കിൽ 7 വ്യത്യസ്ത ലൈബ്രറികളിൽ പോയി ഞാൻ കൈകൊണ്ട് ഗവേഷണ പ്രബന്ധങ്ങൾ എഴുതി ഫോട്ടോകോപ്പി വളരെ ചെലവേറിയതായിരുന്നു കൂടാതെ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഞങ്ങൾ ലൈബ്രറിയിൽ ഇരുന്നു പേപ്പറിൽ എഴുതി അങ്ങനെയാണ് ഞങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുക ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഞാൻ നാല് പ്രധാന വാക്കുകൾ ടൈപ്പ് ചെയ്യുന്നു എനിക്ക് 1 ദശലക്ഷം പ്രതികരണങ്ങൾ ലഭിച്ചേക്കാം ഒരുപക്ഷേ 10 20 30 ലക്ഷം പ്രതികരണങ്ങൾ അതുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പരിവർത്തനം ഞങ്ങൾ കണ്ടു കാലഹരണപ്പെട്ട സാങ്കേതികവിദ്യയുടെ വളരെ മികച്ച ഉദാഹരണമാണ് ഫ്ലോപ്പി ഡിസ്ക് അത് വന്നു പോയി വിസിആർ വീഡിയോ കാസറ്റ് റെക്കോർഡറുകൾ ഞങ്ങൾ കുട്ടികളായിരുന്നു വിസിആർ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓ കൊള്ളാം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാൻ കഴിയും പിന്നെ ഈ ഹാൻഡ്ഹെൽഡ് ഹാൻഡി ക്യാമറയുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അതിൽ റിക്കാർഡാക്കാം കൂടാതെ ഓഡിയോ കാസറ്റുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ ടേപ്പ് പുറത്തുവരുമായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു പെൻസിൽ ഉപയോഗിച്ച് ഒട്ടിക്കും അത് വന്നു പോയി എന്റെ പിതാവിന്റെ തലമുറ ഇതു കണ്ടിട്ടുണ്ട് ഇതിനുമുമ്പ് അവർ ഒരു സമയം കണ്ടിട്ടുണ്ട് അവർക്ക് ഓഡിയോ കാസറ്റുകൾ ഒരു പുതുമയായിരുന്നു ഇപ്പോൾ ഓഡിയോ കാസറ്റുകളുടെ ഒരു വലിയ പെട്ടി വീട്ടിൽ കിടപ്പുണ്ട് എന്തുചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല അവയിൽ ഒരുപാട് ക്ലാസിക് സംഗീതം ആണ് ഉള്ളത് അതിനാൽ ഇവ മാറ്റിസ്ഥാപിക്കപ്പെട്ട വ്യവസായങ്ങളാണ് കൂടാതെ സിഡികൾ നിങ്ങളിൽ പലരും സിഡി വ്യവസായം കണ്ടിട്ടുണ്ടാകും വരികയും പോവുകയും ചെയ്യുന്നു ഫ്ലോപ്പി ഡിസ്ക് വ്യവസായം വന്നു പോയി യഥാർത്ഥ ഫ്ലോപ്പികൾ 3 12 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്ക് ഞാൻ കരുതുന്നു ഇത് മിക്കവാറും നാലോ അഞ്ചോ വർഷത്തേക്ക് വിപണിയിലുണ്ടായിരുന്നു ഒരുപക്ഷേ 10 8 10 വർഷം പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയെ ഉൾക്കൊള്ളുന്നതിനായി നിർമ്മിച്ച കമ്പ്യൂട്ടറുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട് ആ ഫ്ലോപ്പി ഡിസ്കുകളുടെ ഡ്രൈവറുകൾ ഞങ്ങളുടെ പക്കലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ഒരു ഫ്ലോപ്പി ഡിസ്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനകരമല്ല യഥാർത്ഥ ഫ്ലോപ്പി ഡിസ്ക് അത് ഫ്ലോപ്പ് ചെയ്തു അത് ശരിക്കും ഫ്ലോപ്പ് ആയി ഞാൻ ഉദ്ദേശിച്ചത് പരാജയപ്പെട്ടില്ല പക്ഷേ അത് കാലഹരണപ്പെട്ടതേയുള്ളൂ കാരണം സാങ്കേതികവിദ്യ വളരെ വേഗത്തിൽ വികസിച്ചു ജോലിയുടെ ഭാവി സ്ഥിരത എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ജോലി മൂല്യനിർണ്ണയത്തിന്റെ സ്ഥിരതയാണ് ജോലികളെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ജോലികൾ വളരെ സ്ഥിരതയോടെ വിലയിരുത്തണം വ്യത്യസ്ത ജോലികൾക്ക് സ്ഥിരവും നിലവാരമുള്ളതുമായ രീതിയിൽ കോമ്പൻസേഷൻ നൽകേണ്ടതുണ്ട് അപ്പോൾ തങ്ങളോട് നീതി പുലർത്തുന്നതായി ആളുകൾക്ക് തോന്നുന്നു മാർക്കറ്റ് ഡാറ്റയുമായി എങ്ങനെയാണ് ആന്തരിക ശമ്പള ബന്ധങ്ങളെ ബന്ധിപ്പിക്കുന്നത് ജോലികൾ ബെഞ്ച്മാർക്ക് ചെയ്യുന്നു സമാനമായ ജോലികൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നു സമാനമായ ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പ്രതിഫലം ലഭിക്കുന്നത് കൂടാതെ അതിനായി ഞങ്ങൾ അവർക്ക് കോമ്പൻസേഷൻ നൽകുന്നു കൂടാതെ ഞങ്ങൾ പറയുന്നു ഇതാണ് ഞങ്ങളുടെ ജീവനക്കാർക്ക് ഞങ്ങൾ നൽകുന്ന ഏറ്റവും കുറഞ്ഞ തുക അപ്പോൾ ഞങ്ങൾക്ക് പ്രസക്തമായ തൊഴിൽ വിപണികളുണ്ട് അതിനാൽ നിങ്ങൾക്ക് തൊഴിൽ വിപണിയുണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിന് പുറത്തുള്ള വ്യവസായത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ കൂടാതെ കൃത്യമായ ജോലി പൊരുത്തത്തിന്റെ ഉറപ്പ് ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ ചെയ്യുന്ന തരത്തിലുള്ള ജോലികൾ മറ്റൊരു ഓർഗനൈസേഷനിൽ ചെയ്യുന്നതുപോലെയാണോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ ഈ പൊരുത്തങ്ങൾ എത്ര കൃത്യമാണ് തുടർന്ന് ഞങ്ങൾക്ക് ശമ്പളത്തിന്റെ അപകടസാധ്യതയുള്ള രൂപങ്ങളും ഉണ്ട് അവയിൽ ചിലത് വ്യക്തിഗത പ്രകടനത്തെയും ചിലത് സ്ഥാപനത്തിന്റെ ലാഭത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങൾ വിൽപ്പനക്കാരായി സമ്പാദിക്കുന്ന കമ്മീഷനുകൾ അല്ലെങ്കിൽ ജീവനക്കാരുടെ സ്റ്റോക്ക് ഉടമസ്ഥാവകാശ പദ്ധതികൾ കൂടാതെ ESOP കൾക്കൊപ്പം ജീവനക്കാരന്റെ സ്റ്റോക്കുകൾ ഉയരണം എന്നതാണ് വ്യവസ്ഥയെങ്കിൽ അത് വളരെ മികച്ചതാണ് നിങ്ങൾക്ക് ലാഭം ലഭിക്കും പക്ഷേ അവ താഴേക്ക് പോയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും കൂടാതെ അത് നിർഭാഗ്യകരമാണ് കൂടാതെ ഈ ESOP കളിലൂടെ ധാരാളം ആളുകൾക്ക് ധാരാളം പണം നഷ്ടപ്പെട്ടു അതിനാൽ അത് ഒരു അപകടസാധ്യതയുള്ള ശമ്പള രൂപമാണ് ഇത് വളരെ ആകർഷകമായി തോന്നുന്നു പക്ഷേ ചില കാരണങ്ങളാൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ നന്നായി നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകും നിങ്ങൾ എങ്ങനെയാണ് ഒരു ശമ്പള ഘടന വികസിപ്പിക്കുന്നത് ഒരേ പൊതു മൂല്യമുള്ള ജോലികൾ ഒരേ ശമ്പള ഗ്രേഡിലേക്ക് ക്ലസ്റ്റർ ചെയ്യേണ്ടതുണ്ട് നേരെമറിച്ച് മൂല്യത്തിൽ വ്യക്തമായി വ്യത്യാസമുള്ള ജോലികൾ വ്യത്യസ്ത ശമ്പള ഗ്രേഡുകളിലായിരിക്കണം പോയിന്റ് ഗ്രൂപ്പിംഗിന്റെ സുഗമമായ പുരോഗതി ഉണ്ടാകണം അതിനാൽ വിവിധ തലങ്ങളിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർമാർ തമ്മിലുള്ള പരിവർത്തനം ഒരുപക്ഷേ 500 ന്റെ ഘടകമായിരിക്കില്ല പക്ഷേ അത് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 10 ന്റെ ഘടകമാകാം പക്ഷേ അതിൽ കൂടുതലല്ല ഇതൊരു ആപേക്ഷിക കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരേ തലത്തിലുള്ള ഡോക്ടർമാരുടെ ഉദാഹരണം എടുക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത് പെട്ടെന്നുള്ള ചാട്ടമാകരുത് എന്ന ആശയം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് സുഗമമായ പുരോഗതി ആയിരിക്കണം കൂടാതെ അടുത്ത ഉയർന്ന തലത്തിലുള്ള ശമ്പളത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് ആളുകൾ അറിഞ്ഞിരിക്കണം പുതിയ സംവിധാനം കമ്പനിയുടെ നിലവിലുള്ള അലോക്കേഷനുമായി യോജിച്ചതായിരിക്കണം അതിനാൽ നിങ്ങളുടെ പക്കലുള്ളതെല്ലാം കണക്കിലെടുക്കണം നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്തും കണക്കിലെടുക്കണം അല്ലെങ്കിൽ അവിടെയുള്ളത് കണക്കിലെടുക്കണം അതിനാൽ ഇത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണെന്ന് തോന്നുന്നില്ല പേ ഗ്രേഡുകൾ പേ പാറ്റേണുകൾക്കും പ്രസക്തമായ മാർക്കറ്റുകൾക്കും ന്യായമായും പൊരുത്തപ്പെടണം വീണ്ടും നമ്മൾ സംസാരിക്കുന്നത് ബാഹ്യ ഇക്വിറ്റിയെക്കുറിച്ചാണ് കോമ്പൻസേഷൻ ഉപകരണങ്ങൾ ഞങ്ങൾക്ക് ജോലി അടിസ്ഥാനമാക്കിയുള്ള സമീപനങ്ങളുണ്ട് കൂടാതെ ഞങ്ങൾക്ക് നൈപുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമീപനമുണ്ട് നിങ്ങൾ ചെയ്യുന്ന തരത്തിലുള്ള ജോലി ചെയ്യുന്നതിനുള്ള സമഗ്രമായ സമീപനമാണ് ജോലി അടിസ്ഥാനമാക്കിയുള്ള സമീപനം നൈപുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം നിങ്ങൾ മേശയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള കഴിവുകളെ പ്രത്യേകമായി കൈകാര്യം ചെയ്യുന്നു അതിനാൽ നിങ്ങൾ കൊണ്ടുവരുന്ന കഴിവുകൾക്കാണ് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് ഔട്ട്പുട്ടിന് വേണ്ടിയല്ല ഔട്ട്പുട്ടിനായുള്ള ജോലി അടിസ്ഥാനമാക്കിയുള്ള സമീപനങ്ങൾ ഔട്ട്പുട്ടിന്റെ മൊത്തത്തിലുള്ള കോമ്പൻസേഷനെ സൂചിപ്പിക്കുന്നു കൂടാതെ നൈപുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം എന്തെങ്കിലും ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിന് കോമ്പൻസേഷൻ നൽകുന്നു ഇത് കുറച്ച് കഴിഞ്ഞ് കൈകാര്യം ചെയ്യും കൂടാതെ ശമ്പളവും പ്രോത്സാഹന സംവിധാനങ്ങളും ഞങ്ങൾക്ക് ട്രസ്റ്റ് ഗാപ് ഉണ്ട് ഞങ്ങൾ ശമ്പളത്തെയും ഇൻസെന്റീവ് സംവിധാനങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഉയർന്ന മാനേജ്മെന്റ് മിഡിൽ മാനേജ്മെന്റ് ഫ്രണ്ട്ലൈൻ തൊഴിലാളികൾ എന്നിവയ്ക്കിടയിലുള്ള ഇൻസെൻറീവ്ലെ അസമത്വത്തിന്റെ ഫലമായാണ് ട്രസ്റ്റ് ഗാപ് സംഭവിക്കുന്നത് ഉന്നത മാനേജ്മെന്റിന്റെ ആത്മവിശ്വാസം കുറയുന്നു അതിനാൽ അവിശ്വാസത്തിന്റെ ഒരു ഘടകമുണ്ട് ട്രസ്റ്റ് ഗാപ് ഉയർത്തുന്ന ചില വെല്ലുവിളികൾ ഒന്ന് ഞങ്ങൾ ജോലിക്കാർക്ക് ഞങ്ങളോട് അന്യായമായി പെരുമാറി എന്ന് തോന്നി വിശ്വാസ വിടവിന്റെ പ്രവചനാതീതമായ അനന്തരഫലങ്ങളാണിവ കൂടാതെ ട്രസ്റ്റ് ഗാപ് കൈകാര്യം ചെയ്യാൻ തന്ത്രങ്ങളുണ്ട് അതിനാൽ ഇവയാണ് ചില വെല്ലുവിളികൾ ചില വെല്ലുവിളികൾ വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച ചില മാറിക്കൊണ്ടിരിക്കുന്ന തത്ത്വചിന്തകൾ തൊഴിലാളികളുടെ വലിപ്പം കുറയ്ക്കുക വേതനം ശമ്പളം മുതലായവയുടെ വില നിയന്ത്രിക്കുന്നതിനുമുള്ള വർദ്ധിച്ച സന്നദ്ധതയാണ് പണത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് അതിനാൽ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന രീതി മാറ്റുകയാണ് കൂടാതെ സംഘടനകളിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം കുറയുന്നു കൂടാതെ ആളുകൾ അത് ചെയ്യാൻ കൂടുതൽ തയ്യാറാണ് മത്സരാർത്ഥികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ഥാനത്തെക്കുറിച്ച് ആശങ്ക കുറവാണ് കൂടാതെ കമ്പനിക്ക് താങ്ങാനാവുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാണ് തൊഴിൽ വിപണിയിൽ ഞങ്ങൾ അത്രയധികം ആശങ്കപ്പെടുന്നില്ല ഞങ്ങൾ പറയുന്നു ഇതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത് എനിക്ക് ചെയ്യാൻ കഴിയില്ല എടുക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക പ്രകടനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രതിഫലം നൽകുന്നതിനുമുള്ള പ്രോഗ്രാമുകൾ നടപ്പിലാക്കൽ അതിനാൽ നിങ്ങൾ കൂടുതൽ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും നിങ്ങൾ കുറച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറവ് ലഭിക്കും ഇതിനെ വേരിയബിൾ പേ എന്ന് വിളിക്കുന്നു കൂടാതെ ശമ്പള അഡ്മിനിസ്ട്രേഷൻ സംവിധാനങ്ങളും സംഘടനാ റിവാർഡ് സംവിധാനങ്ങളുടെ ഘടകങ്ങളും ലക്ഷ്യങ്ങളും മാറ്റുന്നതിനെക്കുറിച്ചും ജോലി വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് സംവിധാനങ്ങൾക്കുള്ള ബദലുകളെക്കുറിച്ചും അടുത്ത ക്ലാസിൽ ചർച്ച ചെയ്യും കൂടാതെ അടുത്ത ക്ലാസിൽ ഓരോന്നിനും പ്രതിഫലം നൽകുന്ന സംവിധാനങ്ങളിലേക്ക് നീങ്ങും 30 മിനിറ്റിനുള്ളിൽ എല്ലാം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബുദ്ധിമുട്ടാണ് പക്ഷേ ഞങ്ങൾ ശ്രമിക്കും അതിനാൽ ശ്രദ്ധിച്ചതിന് നന്ദി നിങ്ങൾക്കൊപ്പം റിവാർഡ് സിസ്റ്റങ്ങളെക്കുറിച്ചുള്ള അടുത്ത സെഷനായി ഞാൻ കാത്തിരിക്കുന്നു